ഞാൻ ഈ സർക്യൂട്ട് വീണ്ടും വരക്കട്ടെ വീണ്ടും നിങ്ങൾ Vo VGS കണ്ടുപിടിക്കുക Vs കാരണം ഈ സർക്യൂട്ട് ചില VGS ഉൽപാദിപ്പിക്കുന്നതായി നിങ്ങൾ വിചാരിക്കുക കൂടാതെ ഈ VGS കുറച്ച് Vo ഉൽപാദിപ്പിക്കുന്നു ഇവിടെ ഒഴുകുന്ന കറന്റ് തീർച്ചയായും gm VGS ആണ് നമുക്ക് വേണ്ടത് RLനു കുറുകേയുള്ള വോൾട്ടേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ റെസിസ്റ്ററും ഈ ബ്രാഞ്ചും തമ്മിലുള്ള കറന്റ് വിഭജനം ഉണ്ട് അതിനാൽ ആ കറന്റ് RD ഡിവൈഡെഡ് ബൈ RD പ്ലസ് ഇംപിഡൻസ് ഓഫ് RL ആന്റ് സീരീസിലെ C2 പ്ലസ് നല്കുന്നു അതിനാൽ ഇതിലൂടെ മുകളിലേക്കുള്ള ദിശയിലേക്ക് ഒഴുകുന്ന കറന്റ് അതാണ് അതിനാൽ RL നു കുറുകേയുള്ള യഥാർത്ഥ വോൾട്ടേജായ V നോട്ട് ഇതിന്റെ നെഗറ്റീവ് ഗുണിക്കണം RL ആണ് ഇതിനെ മൈനസ് g m VGS ഗുണനം j ഒമേഗ C 2 ഗുണനം RD ഗുണനം R L ഡിവൈഡെഡ് ബൈ വൺ പ്ലസ് j ഒമേഗ C2 RD പ്ലസ് RL എന്നു എഴുതാം വീണ്ടും C2 ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ പെരുമാറുന്നുവെന്ന് വിചാരിക്കുക നമ്മൾ V നോട്ടിനെ വിലയിരുത്തി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് C2 ഒരു ഷോർട്ട് സർക്യൂട്ടായി പെരുമാറണം എന്ന് നമ്മൾ പറയുമ്പോൾ V നോട്ട് എന്നതിന്റെ മൂല്യം നമുക്ക് ഇവിടെ ഈ കപ്പാസിറ്റൻസ് C2 ഉണ്ടായാലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലും തുല്യമായിരിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത് ഈ സംഖ്യ ഒമേഗ C2 ഗുണിക്കണം RD RL ഒന്നിനേക്കാൾ വളരെ വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ അവഗണിക്കാം കാരണം ഈ സാങ്കൽപ്പിക ഭാഗത്തിന് വളരെയധികം വലിപ്പമുണ്ട് അപ്പോൾ ഈ j ⍵ C2 ഇല്ലാതാകും RD RL RD RL എന്നതാണ് നമുക്ക് ലഭിക്കുക അതായത് RD യും RL ഉം ഈ കണ്ട്രോൾട് കറൻറ് സോഴ്സിന് സമാന്തരമായി ദൃശ്യമാകും അതിനാൽ ഈ കണ്ടിഷനാണ് നമുക്ക് വേണ്ടത് ഔട്ട്പുട്ട് വോൾട്ടേജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ ഇവ രണ്ടും ബന്ധപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും ഇത് എങ്ങനെ വിലയിരുത്താമെന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം കപ്പാസിറ്ററും അതിനു കുറുകെയുള്ള പ്രതിരോധവും തിരിച്ചറിയുക എന്നതാണ് നിങ്ങൾ സോഴ്സ് പൂജ്യമാക്കുന്നു നിങ്ങൾ Vs പൂജ്യത്തിന് തുല്യമാക്കി വയ്ക്കുന്നു ഈ VGS ഉം പൂജ്യമായിത്തീരുന്നു കാരണം ഇത് പ്രവർത്തിപ്പിക്കുന്ന Vs ഇല്ല ഈ VGS പൂജ്യമായിത്തീരുന്നു ഈ g m VGS ഉം അങ്ങനെ തന്നെയാകുന്നു അതിനാൽ ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയി മാറുന്നു അതിനാൽ നമുക്കെന്താണുള്ളത് നമുക്ക് ആകെയുള്ളത് ഒരു കപ്പാസിറ്റർ C 2 R D R L എന്നിവയാണ് അതിനാൽ കപ്പാസിറ്റർ C 2 ന്റെ കുറുകെ R D യുടെയും R L ന്റെയും സീരീസ് കോമ്പിനേഷൻ നിങ്ങൾ കാണുന്നില്ലേ അതാണ് ഇത് പറയുന്നത് 1 ⍵ C2 എന്ന റിയാക്റ്റൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത് വ്യത്യസ്തമായി മാറ്റിയെഴുതുകയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ റിയാക്റ്റൻസ് അതിലുടനീളമുള്ള റെസിസ്റ്റൻസിനേക്കാൾ വളരെ ചെറുതായിരിക്കണം അത് R D പ്ലസ് R L ആണ് അതിനാൽ ഇങ്ങനെയാണ് നമുക്ക് C 2 തിരഞ്ഞെടുക്കാനാകുന്നത് മുമ്പത്തേപോലെ നിങ്ങൾ C2 വിലെ കൺസ്ട്രെയ്ന്റ് കണ്ടുപിടിക്കുക ഒരു നിശ്ചിത കപ്പാസിറ്റൻസ് C നോട്ടിനേക്കാൾ വളരെ വലുതായിരിക്കണം C2 നിങ്ങൾ പ്രായോഗിക സർക്യൂട്ടിൽ ഏകദേശം പത്തിരട്ടി C നോട്ട് ഉപയോഗിച്ചാൽ മതിയാകും ഇപ്പോൾ V നോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണുള്ളത് പക്ഷേ C2 ന്റെ ഈ പ്രത്യേക തിരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടാകാം അത് ഞാൻ കാണിക്കാം ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ ദൃശ്യമാകുന്ന ഈ VD യെ നമുക്ക് വിലയിരുത്താം അതായത് ഇൻക്രിമെന്റൽ VD യെ ഇവിടെ എല്ലാം വർദ്ധിക്കുന്നതാണ് ഇതാണ് ഇൻക്രിമെന്റൽ ഇക്യുവാലെന്റ് സർക്യൂട്ട് ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ V D മറ്റൊന്നുമല്ല R Dയുടെയും ഈ സീരീസ് ബ്രാഞ്ചിന്റെയും സമാന്തര സംയോജനത്തിലേക്ക് പോകുന്ന കറൻറ് കൊണ്ട് ഉണ്ടാകുന്നതാണ് അതിനാൽ VD V GS എന്നുപറയുന്നത് മൈനസ് g m ഗുണനം RD ഗുണനം RL പ്ലസ് 1 ഓവർ j ഒമേഗ C2 ഡിവൈഡെഡ് ബൈ എല്ലാത്തിന്റെയും തുക RD പ്ലസ് RL പ്ലസ് 1 ബൈ j ഒമേഗ C2 നു തുല്യമാണ് ഇപ്പോൾ നിങ്ങൾ ഈ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ മുമ്പ് Vo ന്റെ ന്യൂമറേറ്ററിൽ RL മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിനേക്കാൾ വലുതായിരിക്കും ഡ്രെയിൻ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് പ്രത്യേകിച്ചും R D വളരെ വലുതാണെങ്കിൽ അതിനാലിത് മൈനസ് g m വൺ പ്ലസ് j ഒമേഗ C 2 RL1 പ്ലസ് j ഒമേഗ C2 RD പ്ലസ് RL എന്ന് മാറ്റിയെഴുതാം അതിനാൽ RD വളരെ വലുതാണെങ്കിൽ ഡ്രെയിൻ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാൾ വളരെ വലുതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ഫാക്ടർ വൺ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻക്രിമെന്റൽ ഇക്യുവാലെന്റ് സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പ്രശ്നവുമില്ല മുമ്പത്തെ അവസ്ഥ നിങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് V naught വാല്യൂ ലഭിക്കും അത് g m ഗുണനം RD പാരലൽ RL ഗുണനം VGS ആണ് പക്ഷേ പ്രായോഗികമായി ട്രാൻസിസ്റ്ററിനു കുറുകേയുള്ള വോൾട്ടേജ് വളരെ വലുതായിത്തീരാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല കാരണം എന്തുപറഞ്ഞാലും നോൺലീനിയാരിറ്റി ഉണ്ടാക്കുന്ന ഒരു നോൺ ലീനിയർ ഉപകരണമാണിത് അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ രണ്ട് നിബന്ധനകളും പാലിക്കേണ്ടതുണ്ട് ഇവിടെ വോൾട്ടേജ് V o ന് തുല്യമായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു V o നേക്കാൾ വലുതല്ല ഈ സാഹചര്യത്തിൽ നിങ്ങൾ രണ്ട് നിബന്ധനകളും പാലിക്കേണ്ടതുണ്ട് ഈ നമ്പർ ഒന്നിൽ കൂടുതൽ ആയിരിക്കണമെന്നും ഈ നമ്പറും ഒന്നിൽ കൂടുതൽ ആയിരിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് ഒമേഗ C 2 R L ഒന്നിൽ കൂടുതലും ഒമേഗ C 2 R D R L ഒന്നിൽ കൂടുതലും ആയിരിക്കണം C 2 നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഏറ്റവും ശക്തമായ കണ്ടിഷൻ എന്നു നിങ്ങൾക്ക് വ്യക്തമായി R Dയും R Lല്ലും ഒരേ അളവ് ആണെങ്കിൽ ഇവ രണ്ടും തുല്യമാണ് R D R Lന് തുല്യമാണെങ്കിൽ ഇത് അതിന്റെ രണ്ട് ഇരട്ടിയാണ് അതിനാൽ ഇത് ഒരു വലിയ പ്രശ്നമല്ല പക്ഷേ R D R Lനേക്കാൾ പത്തിരട്ടി വലുതാണെങ്കിൽ എന്ത് സംഭവിക്കാമെന്നാൽ അത് ഈ അവസ്ഥയെ തൃപ്തിപ്പെടുത്തും പക്ഷേ മറ്റേതിനെയില്ല അതിനാൽ സാധാരണയായി ഔട്ട്പുട്ട് ഭാഗത്ത് ഒമേഗ C 2 R L ഒന്നിൽ കൂടുതൽ ആവണമെന്നുള്ള ഈ അവസ്ഥ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു ഈ കണക്കുകൂട്ടലുകളിലൂടെ ഞാൻ കടന്നുപോയതിന്റെ കാരണം ഇത് ഔട്ട്പുട്ട് വോൾട്ടേജിന് വേണ്ടിയല്ല ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങൾ ഇതുമാത്രം നിറവേറ്റിയാലും ശരിയായി കിട്ടും ഡ്രെയിൻ സോഴ്സ് സിഗ്നൽ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിന് തുല്യമാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണിത് അതിനാൽ ഈ മാനദണ്ഡങ്ങളിൽ എങ്ങനെയാണ് എത്തുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടിസ്ഥാനപരമായി ഇത് ബേസിക് ഇലെക്ട്രികൽ സർക്യൂട്ട് കോഴ്സിൽ ടൈം കോൺസ്റ്റന്റ് വിലയിരുത്തുന്നതിന് തുല്യമാണിത് ഞാൻ പറഞ്ഞതുപോലെ ഇവ എളുപ്പത്തിൽ ചെയ്യുന്നതിന് നിങ്ങൾ സിനുസോയ്ഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ഫേസർ അനാലിസിസ് വീണ്ടും മനസിലാക്കുക നിങ്ങൾ അത് ചെയ്തുകഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ നേരിടുന്ന ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടുകൾക്കായി നിങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മാനദണ്ഡം വളരെ എളുപ്പമാണ് നിങ്ങൾ കപ്പാസിറ്ററിനെ തിരിച്ചറിക അതിന് കുറുകെയുള്ള റെസിസ്റ്ററിനെ നിങ്ങൾ തിരിച്ചറിയുക കപ്പാസിറ്റീവ് റിയാക്ടൻസ് റെസിസ്റ്റീവിനേക്കാൾ വളരെ കൂടുതലാണെന്ന് ഉറപ്പ് വരുത്തുക കപ്പാസിറ്റീവ് റിയാക്ടൻസ് റെസിസ്റ്റീവ് റിയാക്ടൻസിനേക്കാൾ വളരെ ചെറുതാണ് എന്ന് ഉറപ്പ് വരുത്തുക ഇപ്പോൾ അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങക്ക് ഒന്നിലധികം കപ്പാസിറ്ററുകൾ ഉള്ളപ്പോൾ നിങ്ങൾ എന്തുചെയ്യും ഏറ്റവും എളുപ്പമുള്ള കാര്യം എല്ലാ കപ്പാസിറ്ററുകളുമൊന്നിച്ചുള്ള മുഴുവൻ ട്രാൻസ്ഫർ ഫംഗ്ഷനും നിങ്ങൾക്ക് കണക്കാക്കാമെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള എക്സ്പ്രെഷനിലേക്ക് നയിച്ചേക്കാം അതിനാൽ നിങ്ങൾ ചെയ്യുന്നത് ഇനിപ്പറയുന്നവയാണ് നിങ്ങൾ ഒരു സമയം ഒരു കപ്പാസിറ്റർ എടുക്കുക മറ്റ് കപ്പാസിറ്ററുകളെല്ലാം ഷോർട്ടാണെന്ന് കരുതിക്കൊണ്ട് ആ സമയത്ത് ആ കപ്പാസിറ്ററിന്റെ മൂല്യം മാത്രം കണക്കാക്കുക ഈ രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടുകൾ മാത്രമേ ഇങ്ങനെ പരിഗണിക്കാവൂ ഇവയിൽ ഓരോന്നും ഒരു അസമത്വം നൽകാൻ മാത്രമാണ് പോകുന്നത് കപ്പാസിറ്റർ എന്തിനെക്കാളും വളരെ വലുതായിരിക്കണമെന്ന് ഇത് പറയുന്നു അതിനാൽ നിങ്ങൾ അതിനെക്കാൾ പത്തോ ഇരുപതോ ഇരട്ടി വലുതാക്കുക അപ്പോൾ എല്ലാം ശരിയാകും